മാർജിനൽ കോസ്റ്റിംഗ് CVP BEP ഹ്രസ്വകാല തീരുമാനമെടുക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ച തുടരുന്നതിനിടയിൽ നമ്മൾ വിവിധ കേസുകൾ ചർച്ച ചെയ്തു ഇന്ന് ഒരു യഥാർത്ഥ ജീവിത സാഹചര്യം എടുക്കുമ്പോൾ നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് കണക്കാക്കാൻ കഴിയുന്നത് എങ്ങനെയെന്ന് നോക്കാം അല്ലെങ്കിൽ യഥാർത്ഥ കണക്കുകൾ എടുത്ത് ചില തീരുമാനങ്ങൾ എടുക്കാം അതിനാൽ നിങ്ങൾ ഈ കേസിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് ഒരുമിച്ച് ഈ കേസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കാം ജെ എസ് ഡബ്ളിയൂ ഇസ്പാറ്റ് സ്റ്റീലിന്റെ ലാഭ നഷ്ട കണക്ക് നമുക്ക് നൽകിയിട്ടുണ്ട് അവ പ്രാഥമികമായി രണ്ട് പ്രോഡക്റ്റ് ലൈനുകളിൽ പ്രവർത്തിക്കുന്നു പി എൽ നെറ്റ് സെയിൽസ് മറ്റ് വരുമാനം അസംസ്കൃത വസ്തുക്കൾ ഊർജ്ജ ഇന്ധനം ജീവനക്കാരുടെ ചെലവ് മറ്റ് നിർമ്മാണ ചെലവുകൾ വിൽപ്പന അഡ്മിൻ പലിശ എന്നിവയിൽ നിന്നുള്ള യഥാർത്ഥ കണക്കുകൾ ഇവയാണ് A B എന്നീ രണ്ട് ഉൽപ്പന്ന ലൈനുകൾ ഉള്ളതിനാൽ ഈ ഓരോ ചെലവുകൾക്കും ഒരു ബ്രേക്ക് അപ്പ് നൽകുന്നു ഡയറക്റ്റ് കോസ്ററ് ശതമാനം എത്രയാണെന്ന് ചെലവ് ഘടന കണക്കാക്കിയിട്ടുണ്ട് അത് അസംസ്കൃത വസ്തുക്കൾ 100 ശതമാനം ശക്തി 80 ശതമാനം ജീവനക്കാർ 70 ശതമാനവും മറ്റും ആണ് വിൽപനച്ചെലവും അഡ്മിൻ ചിലവും ഒരുമിച്ച് നൽകിയതിനാൽ വിൽപനയ്ക്ക് 80 ശതമാനവും അഡ്മിൻ 20 ശതമാനവും ബ്രേക്ക് അപ്പ് നൽകുന്നു എല്ലാ പരോക്ഷ ചെലവുകളും ഫിക്സഡ് ആണ് അഡ്മിൻ ഓവർഹെഡുകൾ സാധാരണ ചെലവുകളാണ് അവ ഒരു പ്രോഡക്റ്റ് ലൈനിലേക്കും ലിങ്ക് ചെയ്യാൻ കഴിയില്ല മറ്റ് ചിലവുകളുടെ ബ്രേക്ക് അപ്പ് കൂടി ഇവിടെ നൽകിയിരിക്കുന്നു അതിനാൽ ഈ പ്രത്യേക ബ്രേക്ക്അപ്പ് അഡ്മിൻ ഓവർഹെഡുകൾക്ക് ബാധകമല്ല എന്നാൽ മറ്റൊരു കാര്യം നൽകിയിരിക്കുന്ന ശതമാനം അനുസരിച്ച് നിങ്ങൾക്ക് അവ ബ്രേക്ക് ഡൌൺ ചെയ്യാൻ കഴിയും നിങ്ങൾ ഇനിപ്പറയുന്നവ കണക്ക് കൂട്ടണം ഇനി പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളോടു ചോദിക്കുന്നു ഉദാഹരണത്തിന് മൊത്തം ജീവനക്കാരുടെ ചെലവ് പ്രോഡക്റ്റ് ലൈൻ A B എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു വേരിയബിൾ അഡ്മിൻ ചിലവുകൾ വീണ്ടും ബ്രോക്കൻ ഡൌൺ ചെയ്തു വേരിയബിൾ വിൽപ്പന ചിലവ് പ്രവർത്തന ലാഭവും പിവി അനുപാത൦ ഇവയും ബ്രോക്കൻ ഡൌൺ ചെയ്തു കൂടാതെ ചില ഹ്രസ്വകാല തീരുമാനങ്ങളിൽ ഞങ്ങൾ മാനേജ്മെന്റിനെ ഉപദേശിക്കുകയും ആ തീരുമാനങ്ങളെ അടിസ്ഥാനമാക്കി അതിന്റെ ഫലമായുണ്ടാകുന്ന പ്രവർത്തന ലാഭം കണക്കാക്കുകയും വേണം ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ലൈനിന്റെ മൊത്തം വിൽപ്പന 20 ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഏത് പ്രോഡക്റ്റ് ലൈനിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നിങ്ങൾക്ക് രണ്ട് പ്രോഡക്റ്റ് ലൈനിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ലൈനിലേക്ക് മാത്രം പോകാൻ കഴിയും വിൽപ്പന വർദ്ധിപ്പിക്കാനും കഴിയും അതിനാൽ നിങ്ങൾ ഏതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിനായി നിങ്ങൾ കോണ്ട്രിബൂഷനും എഫ്സിയും പുതുക്കിയ പ്രവർത്തന ലാഭവും കണക്കാക്കേണ്ടതുണ്ട് രണ്ടാം ഭാഗത്തിൽ നേരിട്ടുള്ള തൊഴിലാളികളുടെ ലഭ്യത കുറവാണെങ്കിൽ ഏത് പ്രോഡക്റ്റ് ലൈൻ ഫോക്കസ് ചെയ്യണം ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ലൈനിൽ വിൽപ്പന 20 ശതമാനം വർദ്ധിപ്പിക്കാൻ കമ്പനി നിർദ്ദേശിക്കുന്നു പക്ഷേ അവർക്ക് ഡയറക്റ്റ് ലേബർ അധികമില്ല അതിനാൽ മറ്റ് ലൈനിൽ നിന്ന് ഡയറക്റ്റ് ലേബർ ഉപയോഗിക്കുകയും അത് അവിടെ നിന്നു വെട്ടിക്കുറച്ചു ഇവിടെ ഇൻക്രിമെന്റൽ കോണ്ട്രിബൂഷൻ ആയി കണക്ക് കൂട്ടി ഉപയോഗിക്കുകയുമാണെങ്കിൽ ഈ തീരുമാനം ശരിയാണ് ആദ്യം ദയവായി അടിസ്ഥാന കണക്കുകൂട്ടൽ നടത്തുക കാരണം നമുക്ക് മൊത്തം വിവരങ്ങൾ അറിയാം പ്രോഡക്റ്റ് ലൈൻ A B എന്നിവയായി അതിനെ വിഭജിക്കുക ഒരേസമയം വേരിയബിളും ഫിക്സഡും ആയി കോസ്ററ് വിഭജിക്കേണ്ടതുണ്ട് കാരണം മാർജിനൽ കോസ്റ്റിൽ നമ്മുടെ ഊന്നൽ വേരിയബിളും ഫിക്സഡ് കോസ്റ്റുകളും വേർതിരിക്കുന്നതിനാണ് അത് നമ്മൾ ഒരു പ്രത്യേക ഫോർമാറ്റിൽ എഴുതുന്നു അതിനാൽ ഓരോ ലൈൻറെയും വിൽപ്പന എടുക്കുക ആ വരിയുടെ വേരിയബിൾ കോസ്ററ് കണക്കാക്കി അതിനെ A B എന്നിങ്ങനെ വേർതിരിക്കുക ഒന്നാമതായി വേരിയബിൾ കോസ്റ്റ് മാത്രമേ നമുക്ക് സംഭാവന ലഭിക്കൂ അതിൽ നിന്ന് ഫിക്സഡ് കോസ്ററ് കുറയ്ക്കുക അത് നമുക്ക് ലാഭം നൽകും എന്നോടൊപ്പം കണക്കു ചെയ്യുക നൽകിയിരിക്കുന്ന ഡാറ്റ ഇതാണ് വിഷമിക്കേണ്ട ഞാൻ നിങ്ങളെ ഉത്തരം കാണിക്കില്ല അതുകൊണ്ട് നിങ്ങൾ തനിയെ ഇത് സോൾവ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് സ്ട്രക്ചർ കാണിച്ചു തന്നു നിലവിലെ വരുമാനവും ചിലവും മൊത്തം സെയിലും തന്നിരിക്കുന്നു അവയുടെ ശതമാനം നൽകിയിരിക്കുന്നു ദയവായി ശതമാനം ഉപയോഗിച്ച് A B എന്നിവയ്ക്കുള്ള പ്രസക്തമായ ചെലവ് കണക്കാക്കുകയും ചെയ്യുക ഇപ്പോൾ ഇത് ചെയ്യുന്നതിന് നമുക്ക് ആദ്യം വേരിയബിൾ ഘടകത്തെ വിഭജിക്കേണ്ടതുണ്ട് തുടർന്ന് വേരിയബിൾ ചാർജ് A B എന്നിവ വെവ്വേറെ തിരിക്കുക ഫിക്സഡ് ചാർജിനായി A B എന്നിവ വെവ്വേറെ തിരിക്കുക വിൽപ്പനയുടെ വേരിയബിൾ ഘടകം എന്താണ് വ്യക്തമായും ഇത് 100 ശതമാനമാണ് തുടർന്ന് A B എന്നിവയുടെ വിൽപ്പന എളുപ്പത്തിൽ ഈടാക്കാൻ കഴിയും എന്നാൽ ഇപ്പോൾ അസംസ്കൃത വസ്തുക്കളുടെ വേരിയബിൾ ഘടകം എന്താണ് വീണ്ടും അത് 100 ശതമാനമാണ് പ്രസക്തമായ അനുപാതത്തിൽ ഇത് ഈടാക്കണോ അത് നിങ്ങൾക്ക് മനസിലാകുന്നുണ്ടോ അത് പോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും വിൽപ്പനയ്ക്കും അസംസ്കൃത വസ്തുക്കൾക്കും ഇത് ലളിതമാണ് എന്നാൽ വൈദ്യുതിയും ഇന്ധനവും ഉപയോഗിച്ച് എന്തുചെയ്യും ഒന്നാമതായി നിങ്ങൾ 80 ശതമാനം വരുന്ന വേരിയബിൾ ഘടകം നോക്കേണ്ടതുണ്ട് മൊത്തം വിസി കണക്കാക്കുക അതിനാൽ മൊത്തം ചെലവ് 1193 ആണ് വിൽപ്പനയും അസംസ്കൃത വസ്തുക്കളും സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല കാരണം അവ 100 ശതമാനം വേരിയബിളായിരുന്നു എന്നാൽ പവർ 1993 ന് 80 ശതമാനം മാത്രമേ വേരിയബിളാകൂ അതിനാൽ പവർ ചെലവിന്റെ വേരിയബിൾ ഭാഗമായി 1595 കണക്കാക്കി തുടർന്ന് അത് A B എന്നിവയിൽ പ്രയോഗിക്കാം നിങ്ങൾക്ക് മനസിലാകുന്നുണ്ടോ A B എന്നിവയുടെ ശതമാനം പ്രോബ്ളത്തിൽ നൽകിയിരിക്കുന്നു അസംസ്കൃത വസ്തുവിന് ഇത് 6535 രൂപ ആയി നിശ്ചയിച്ചു പവർ അത് 8020 രൂപ ആയി നിശ്ചയിച്ചു അങ്ങനെ എല്ലാം മനസിലാകുന്നുണ്ടോ അതിനാൽ ഞങ്ങൾ ചെയ്തത് ആദ്യം വേരിയബിൾ ഘടകം കണക്കാക്കി അതിന്റെ 80 ശതമാനം വേരിയബിൾ പവർ ചെലവ് നിശ്ചയിച്ചിരിക്കുന്നു അതിനാൽ വിൽപ്പനയിൽ ഒന്നും നിശ്ചയിച്ചിട്ടില്ല അസംസ്കൃത വസ്തുക്കൾ ഒന്നും നിശ്ചയിച്ചിട്ടില്ല പക്ഷേ വൈദ്യുതിക്കും ഇന്ധനത്തിനും 399 നിശ്ചയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് മനസിലാകുന്നുണ്ടോ ഇപ്പോൾ ജീവനക്കാരുടെ എല്ലാ ചിലവുകളും നമുക്ക് 70 ശതമാനം വരെ വേരിയബിളായി കണക്കാക്കാം അതിനാൽ നിങ്ങൾക്ക് മൊത്തം വേരിയബിളും മൊത്തം ഫിക്സഡ് കണക്കാക്കാം തുടർന്ന് അതിനെ 119 ഉം 64 ഉം ഉള്ളതായി വിഭജിക്കാം ജീവനക്കാരുടെ ചെലവിന്റെ അനുപാതം 35 മുതൽ 65 വരെയാണെന്ന് നിങ്ങൾക്കറിയാം മറ്റ് നിർമ്മാണത്തിന് 60 ശതമാനം വേരിയബിളാണ് അതിനാൽ അത് 9564 അതിൽ 95 വീണ്ടും A B എന്നിങ്ങനെ 67 29 എന്നിങ്ങനെ വിഭജിക്കപ്പെടുന്നു അഡ്മിൻ 10 ശതമാനം വേരിയബിൾ മാത്രം അതിനാൽ 5 വിസിയും 42 എഫ്സിയും ഇത് 3 2 എന്നിങ്ങനെ വിഭജിക്കാം വിൽക്കുന്നതിന് 60 ശതമാനം വേരിയബിളാണ് അങ്ങനെ 111 ഉം 74 ഉം 72 ഉം 39 ഉം ആയി വിഭജിയ്ക്കാം ഇപ്പോൾ ഈ ഘട്ടത്തിൽ A B എന്നിങ്ങനെ വേർതിരിച്ച മുഴുവൻ കമ്പനിയുടെയും മൊത്തം വേരിയബിൾ ചെലവ് നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയും നിങ്ങൾക്കത് കഴിയില്ലേ നിങ്ങൾക്ക് കമ്പനിയുടെ മുഴുവൻ കണക്കുകളും ക്രോസ് ചെക്ക് ചെയ്യാം അപ്പോൾ മൊത്തം വേരിയബിൾ കോസ്റ്റ് 9632 ഉം മൊത്തം ഫിക്സഡ് കോസ്റ്റ് 656 ഉം ആണ് എന്ന് കാണാം VC പ്ലസ് FC എന്നത് വലതുവശതുള്ള തുകയുമായി തുല്യമാകും ഇപ്പോൾ ഈ ഡാറ്റ ഉപയോഗിച്ച് സംഭാവന കണക്കാക്കുക കാരണം മിക്ക തീരുമാനമെടുക്കലിനും സംഭാവന കണക്കുകൂട്ടൽ ആവശ്യമാണ് അതിനാൽ ഞങ്ങൾ A യുടെ സംഭാവന 1268 B യുടെ 204 കമ്പനിയുടെ ആകെ സംഭാവന 1473 എന്ന് കണക്കാക്കി അത് മനസ്സിലായോ ഏത് ഉൽപ്പന്നത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് അതിന് ഇത് ഉപയോഗപ്രദമാണ് അതുപോലെ വിൽപ്പനയിലെ ഫോർമുല സംഭാവന നമുക്ക് അറിയാവുന്നപോലെ പിവി അനുപാതം കണക്കാക്കാം അതിനാൽ PVR 0 16 ഉം A B എന്നിവയ്ക്ക് 0 06 ഉം 0 13 ശരാശരിയുമാണ് നിങ്ങൾക്ക് മനസിലാകുന്നുണ്ടോ ഇപ്പോൾ സ്ഥിരവും വേരിയബിളും ആയി വിഭജിക്കാതെ കമ്പനിയുടെ ഈ പട്ടിക നിങ്ങൾക്ക് പൂർത്തിയാക്കാനും കഴിയും ബ്രേക്ക്അപ്പ് ഉൽപ്പന്നത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കുമ്പോൾ ഈ പ്രത്യേക കണക്കുകൂട്ടൽ ഉപയോഗപ്രദമാകും അതിനാൽ അവർ ഒരു പ്രത്യേക ബ്രേക്ക്അപ്പ് നൽകി അതിനാൽ അതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് അതിനെ AB എന്നിങ്ങനെ വിഭജിച്ച് A B എന്നിവയിൽ നിന്ന് പ്രവർത്തന ലാഭം കണക്കാക്കാം യഥാർത്ഥത്തിൽ രണ്ട് കണക്കുകൾ കൂടി നൽകിയിരുന്നു എന്നത് ഓർമ്മിക്കുക അതായത് മറ്റ് വരുമാനവും പലിശയും മറ്റ് വരുമാനത്തിന് പ്രവർത്തനങ്ങളുമായി ബന്ധമില്ല അതിനാൽ ദയവായി ഇത് ചെലവ് കണക്കുകൂട്ടലിൽ ഉൾപ്പെടുത്തരുത് പലിശ ഒരു സാമ്പത്തിക ചെലവാണ് അതിനാൽ അതും ചെലവ് കണക്കുകൂട്ടലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ മറ്റ് ചെലവുകളുടെ കണക്കുകൂട്ടലുകൾ നടത്തി അത് നിങ്ങൾക്ക് മനസ്സിലായോ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ അതിനാൽ മൊത്തം ചിലവ് നമ്മൾ വേർതിരിച്ചു ചെയ്തു വേരിയബിൾ ചെലവിനും ഞങ്ങൾ ഇത് ചെയ്തു ഇപ്പോൾ കുറച്ച് ചോദ്യങ്ങളേ ചോദിച്ചിട്ടുള്ളൂ നിലവിൽ അവർ ചോദിച്ചത് A B എന്നിവയ്ക്കുള്ള മൊത്തം ജീവനക്കാരുടെ ചെലവ് എത്രയാണ് അതിന്റെ തുകയുടെ തുക എത്രയാണ് ഇപ്പോൾ വരെയുള്ള എല്ലാ ചെലവുകളും നമ്മൾ കണക്കാക്കിയെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ കണക്കുകൾ എടുത്ത് മൊത്തം ജീവനക്കാരുടെ ചെലവ് കാണിക്കാൻ പോകാം അത് സാധിക്കുമോ വേരിയബിൾ അഡ്മിൻ ചെലവുകൾ വേരിയബിൾ സെല്ലിംഗ് ചെലവുകൾ പ്രവർത്തന ലാഭം മുതലായവ കണക്കാക്കാൻ നിങ്ങൾക്ക് അതേ രീതിയിൽ കഴിയും വേരിയബിളിനായി താഴെയുള്ള പട്ടികയിലേക്ക് പോകുക അവിടെ ഞങ്ങൾ വേരിയബിൾ ചെലവുകൾ പ്രത്യേകം കാണിച്ചിരിക്കുന്നു അതിനാൽ അഡ്മിൻ വിൽപ്പനയുടെ ആകെ തുക എന്നിവയും കണക്കാക്കാം അത് മനസ്സിലായോ ഇപ്പോൾ ഒരു തീരുമാനമെടുക്കൽ ഭാഗമുണ്ട് ഇത് വെറും കണക്കുകൂട്ടൽ മാത്രമായിരുന്നു ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന്റെ മൊത്തം വിൽപ്പന 20 ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഏത് ഉൽപ്പന്ന ശ്രേണിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് തീരുമാനമെടുക്കുന്ന ഭാഗം പറയുന്നു അതിനാൽ A B എന്നിവയിൽ നിന്ന് ഏത് ഉൽപ്പന്ന ലൈൻ നിങ്ങൾ തിരഞ്ഞെടുക്കും നിങ്ങൾ പ്രവർത്തന ലാഭം അല്ലെങ്കിൽ സംഭാവന അല്ലെങ്കിൽ വിൽപ്പന അല്ലെങ്കിൽ പിവി അനുപാതം അനുസരിച്ച് പോകുമോ ഇവിടെ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും കാണാൻ കഴിയും ഞങ്ങൾ പിവി അനുപാതത്തിന് ഊന്നൽ നൽകുമെന്ന് നിങ്ങളിൽ മിക്കവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു കാരണം വിൽപ്പനയിലെ പരിമിതിയുടെ സാഹചര്യത്തിൽ പിവി അനുപാതം നിങ്ങളുടെ സംഭാവന പരമാവധി വർദ്ധിപ്പിക്കും നിശ്ചിത ചെലവുകൾ എന്തായാലും സ്ഥിരമായി തുടരുന്നതിനാൽ ഞങ്ങൾ പിവി അനുപാതത്തിന് ഊന്നൽ നൽകും നിങ്ങൾ പിവി അനുപാത ഉൽപ്പന്ന ലൈനിലേക്ക് നോക്കുകയാണെങ്കിൽ A ക്ക് മികച്ച പിവി അനുപാതം ഉണ്ട് അത് 0 16 ആണ് അതിനാൽ ഈ ചോദ്യത്തോട് പ്രതികരിക്കാൻ ഏത് ഉൽപ്പന്ന ലൈൻ കേന്ദ്രീകരിക്കും ഉത്തരം A ആണ് ഫലമായുണ്ടാകുന്ന സംഭാവന എന്തായിരിക്കും എന്നതാണ് ഇപ്പോൾ ചോദ്യം അതിനാൽ മൊത്തം സംഭാവനയും പുതുക്കിയ പ്രവർത്തന ലാഭവും കണക്കാക്കുക സ്ഥിരമായ ചിലവ് എന്തായാലും മാറാൻ പോകുന്നില്ല എന്നത് ഓർക്കുക അതിനാൽ മാറ്റാൻ പോകുന്നത് നിങ്ങളുടെ പ്രവർത്തനം മാത്രം അത് നിങ്ങളുടെ സംഭാവനയാണ് അത് പ്രവർത്തന ലാഭത്തെ മാറ്റും ഇപ്പോൾ ഈ ഉൽപ്പന്ന നിരയ്ക്ക് നിലവിൽ 1268 സംഭാവനയുണ്ട് അതിന് സംഭാവന 20 ശതമാനം വർദ്ധിപ്പിച്ചാൽ മതി നിങ്ങൾക്ക് അത് മനസിലാകുന്നുണ്ടോ പുതിയ വിൽപന പുതിയ അസംസ്കൃത വസ്തുക്കളുടെ വില മുതലായവ പോലുള്ള മറ്റൊരു കണക്കുകൂട്ടലും ആവശ്യമില്ല കാരണം അതേ അനുപാതത്തിൽ വിൽപ്പനയിൽ 20 ശതമാനം വർദ്ധനവ് ഉണ്ടാകുമ്പോഴെല്ലാം സംഭാവനയിൽ വർദ്ധനവ് അനുഭവപ്പെടുന്നു അതിനാൽ പുതുക്കിയ മൊത്തം സംഭാവന കണക്കാക്കുക അതിനാൽ ഞാൻ എന്തുചെയ്യും നിലവിലെ സംഭാവന ഞങ്ങൾ എടുക്കും അത് കൂടുതൽ വ്യക്തമാകുമെന്ന് ഞാൻ കരുതുന്നു അതിനാൽ നിങ്ങൾക്ക് ആകെ A B സംഭാവനകൾ ഉണ്ട് ഇപ്പോൾ പുതുക്കിയ മൊത്തം സംഭാവന കണക്കാക്കുന്നത് വളരെ ലളിതമാണ് ഞങ്ങൾ നിലവിലെ സംഭാവന തുടരും അതിലേക്ക് A യുടെ 20 ശതമാനം മാത്രം ചേർക്കുക അതിനാൽ പുതുക്കിയ മൊത്തം സംഭാവന 1726 ആയി മാറുന്നു നിങ്ങളുടെ നിലവിലെ സ്ഥിര ചെലവ് 656 ആണ് അതിനു മാറ്റമില്ല പുതുക്കിയ ലാഭം പുതിയ സംഭവനയിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് കുറക്കുന്നതായിരിക്കും അതിനാൽ അത് 1070 ആയിരിക്കും നിങ്ങളുടെ പഴയ ലാഭം എത്രയായിരുന്നു പഴയ ലാഭം 816 ആയിരുന്നു ഇപ്പോൾ A യുടെ വിൽപ്പനയിലെ ഈ 20 ശതമാനം വർദ്ധന 1070 എന്ന പുതിയ ലാഭത്തിലേക്ക് നയിച്ചു നിങ്ങൾക്ക് എന്നെ മനസിലാകുന്നുണ്ടോ അതിനാൽ ഏത് ഉൽപ്പന്ന ലൈനിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നായിരുന്നു ഉത്തരം A എന്ന ഉത്തരം ഫോക്കസ് ചെയ്യണം പുതുക്കിയ ലാഭം 1070 13 ആണ് കൊള്ളാം ഇപ്പോൾ രണ്ടാം ഭാഗത്തിൽ ചോദിച്ചിരിക്കുന്നത് തൊഴിലാളികളുടെ ലഭ്യത കുറവാണെങ്കിൽ ഏത് ഉൽപ്പന്ന ലൈനിലാണ് ഫോക്കസ് ചെയ്യേണ്ടത് അതിനാൽ മറ്റൊരു ഉൽപ്പന്നത്തിന്റെ ലേബർ വെട്ടിക്കുറച്ച് ഒരു ഉൽപ്പന്നത്തിന്റെ വിൽപ്പന വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് കമ്പനി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ A B എന്നീ രണ്ട് ഉൽപ്പന്നങ്ങളിൽ ഏത് ഉൽപ്പന്നമാണ് നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കുന്നത് ഏത് ഉൽപ്പന്നത്തിനാണ് കൂടുതൽ റാങ്കുള്ളത് തൊഴിലാളികൾ കുറവാണെങ്കിൽ ഇതിനെ പരിമിതപ്പെടുത്തുന്ന ഘടകം അല്ലെങ്കിൽ ഒരു പ്രധാന ഘടകം ഉപയോഗിച്ച് തീരുമാനമെടുക്കാൻ നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ നിങ്ങളുടെ തീരുമാനമെടുക്കുന്ന ഘടകം എന്തായിരിക്കും ചോദ്യം നമ്പർ 1 ൽ ഞങ്ങൾ PV അനുപാതത്തിന് ഊന്നൽ നൽകിയിരുന്നു എന്നാൽ സാഹചര്യം 2 ൽ ലേബർ ലഭ്യത കുറവായതിനാൽ ഡയറക്ട് ലേബർ സംഭാവന നിങ്ങളുടെ ഒരു പ്രധാന തീരുമാനമെടുക്കൽ ഘടകം ആയിരിക്കും അതിനാൽ ഡയറക്ട് ലേബർ ചെലവിന്റെ സംഭാവന നമുക്ക് കണക്കാക്കാം A B എന്നിവയ്ക്കുള്ള സംഭാവന ഞങ്ങൾക്ക് വ്യക്തിഗതമായി അറിയാം ജീവനക്കാരുടെ വിലയും ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇതാണ് ജീവനക്കാരുടെ ചെലവിന്റെ വേരിയബിൾ ഭാഗം അതിനാൽ ഇത് മറ്റൊന്നുമല്ല നേരിട്ടുള്ള തൊഴിൽ ചെലവാണ് അതിനാൽ നിങ്ങൾക്കത് വിഭജിച്ച് ഡയറക്ട് ലേബർ കോസ്റ്റിലെ ലേബർ കോസ്റ്റ് വിഹിതം A B എന്നിവയ്ക്ക് വെവ്വേറെ നേരിട്ട് നേടാം A യ്ക്ക് ഇത് വളരെ ഉയർന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും അതിനാൽ A പ്രിയപ്പെട്ടതായി തുടരുന്നു അതിനാൽ രണ്ടാം ഭാഗത്തിൽ പോലും ഏത് ഉൽപ്പന്ന ലൈനിന്റെ വിൽപ്പന വർദ്ധിപ്പിക്കാൻ കമ്പനി നിർദ്ദേശിക്കുന്നുവെന്നായിരുന്നു ചോദ്യം അതിനാൽ ഉത്തരം A ആണ് അത് B യിൽ നിന്നുള്ള തൊഴിലാളികളെ വെട്ടിക്കുറച്ച് വിൽപ്പന 20 ശതമാനം വർദ്ധിപ്പിക്കും അതിനാൽ ഇപ്പോൾ A യുടെ ഇൻക്രിമെന്റൽ സംഭാവന എന്തായിരിക്കുമെന്നും എന്താണ് പുതുക്കിയ സംഭാവനയെന്നും നിങ്ങൾ കണക്കാക്കണം ഇപ്പോൾ B ഭാഗത്ത് സംഭവിക്കുന്നത് ആദ്യം A യുടെ വിൽപ്പന പുനഃപരിശോധിക്കുക എന്നതാണ് നിങ്ങളുടെ A യുടെ നിലവിലെ വിൽപ്പന 7773 ആണ് അത് 20 ശതമാനം വർദ്ധിക്കും അതിനാൽ നിങ്ങൾക്ക് A യുടെ പുതിയ വിൽപ്പന ലഭിക്കും വിൽപ്പന വർദ്ധിക്കുമ്പോൾ VC യും അതേ അനുപാതത്തിൽ വർദ്ധിക്കുന്നു ഇപ്പോൾ വിൽപ്പനയിലെ ഈ വർദ്ധനവ് വിൽപ്പനയുടെ 20 ശതമാനം ആയ A ലേക്ക് വരുന്നു ഇതിന് അധികം ഡയറക്റ്റ് ലേബർ സമയം ആവശ്യമാണ് അതിനാൽ ഞങ്ങൾ യഥാർഥമായ ഡയറക്ട് ലേബർ വർക്ക് ഔട്ട് ചെയ്തു അത് 118 ആയിരുന്നു റിവൈസ്ഡ് ഡയറക്ട് ലേബർ 142 ആകുന്നു നിങ്ങൾക്ക് എന്നെ കിട്ടുന്നുണ്ടോ അതിനാൽ 118 എന്നത് ഞങ്ങളുടെ യഥാർത്ഥ കണക്കുകൂട്ടലിൽ നിന്നുള്ള യഥാർത്ഥമായ ഡയറക്ട് ലേബർ ചിലവ് ആയിരുന്നു വിൽപനയുടെ 20 ശതമാനം അധികമായി ഉൾക്കൊള്ളുന്നതാണ് ഡയറക്ട് ലേബർ റിവിഷൻ അതിനാൽ ഇത് വേരിയബിൾ ആയതിനാൽ ഇതിന് 20 ശതമാനം കൂടുതൽ തൊഴിലാളികൾ ആവശ്യമാണ് അതായത് 142 ഇപ്പോൾ ആനുപാതികമായി കൂടുതൽ ഡയറക്ട് ലേബർ A യിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നതിനാൽ B യുടെ ലേബർ അതേ അളവിൽ അതേ ക്വാണ്ടം പ്രകാരം വെട്ടി കുറക്കണം അതിനാൽ B യുടെ യഥാർത്ഥ ഡയറക്ട് ലേബർ 63 ആയിരുന്നു രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കണ്ടെത്താം അത് 23 ആണ് അതിനർത്ഥം ഞങ്ങൾ A യ്ക്ക് 23 തൊഴിലാളികൾ കൂടി നൽകാൻ പോകുന്നു ഇപ്പോൾ തൊഴിലാളികൾ കുറവാണ് അത് സൌജന്യമായി വരാൻ കഴിയില്ല അതിനാൽ B യിൽ നിന്ന് ഞങ്ങൾ തൊഴിൽ കുറയ്ക്കും അതിനാൽ B യുടെ യഥാർത്ഥ തൊഴിൽ 63 9 ആണ് അതിൽ നിന്നു ഞങ്ങൾ 23 കുറയ്ക്കും അപ്പോൾ അത് 40 ആയി മാറ്റും ഇത് B യുടെ വിൽപ്പനയിൽ മാറ്റം വരുത്തും അതിനാൽ B യുടെ യഥാർത്ഥ വിൽപ്പന 3331 46 ആകുന്നു ഇത് 2098 ലേക്ക് ഗണ്യമായി കുറയും അതായത് നമ്മൾ തൊഴിലാളികളെ വെട്ടിക്കുറയ്ക്കുന്നതിന്റെ അതേ അനുപാതത്തിൽ എന്നാണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് എന്നെ കിട്ടുന്നുണ്ടോ ക്വാണ്ടം തുകയുടെ അടിസ്ഥാനത്തിൽ ഇത് ഒരുപോലെ ആയിരിക്കില്ല എന്നാൽ ആനുപാതികമായി ഇത് സമാനമാണ് അതിനാൽ അതേ അനുപാതത്തിൽ 40 മുതൽ 63 വരെയുള്ള അനുപാതത്തിൽ എന്തായാലും അവരുടെ വിൽപ്പന കുറയും അതുകൊണ്ടാണ് B യുടെ പുതുക്കിയ വിൽപ്പന 2094 ആകുന്നത് അതേ അനുപാതത്തിൽ അവർ അവരുടെ സംഭാവന വെട്ടിക്കുറയ്ക്കും അതിനാൽ 208 ആയിരുന്ന ഞങ്ങളുടെ അവസാന കണക്കുകൂട്ടൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ B യിൽ നിന്നുള്ള യഥാർത്ഥ സംഭാവന ഇപ്പോൾ 128 ആയി കുറഞ്ഞു വ്യക്തതയ്ക്കായി ഞാൻ കുറച്ച് കണക്കുകൂട്ടലുകൾ കാണിക്കും നിങ്ങൾക്ക് അവരുടെ പിവി അനുപാതങ്ങളും സംഭാവനയും ശ്രദ്ധിക്കാം അത് 1522 എന്ന് കാണാം നിങ്ങളിൽ കൂടുതൽ വ്യക്തത ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു ഷോർട്ട് കട്ട് വഴിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്ന മുഴുവൻ കണക്കും കാണണമെങ്കിൽ നോക്കൂ ഇതായിരുന്നു യഥാർത്ഥ രംഗം ഇപ്പോൾ ഉൽപ്പന്ന ലൈൻ B യുടെ വിൽപ്പനയിൽ കുറവ് നേരിടുന്നു അതിനാൽ 3331 ൽ നിന്ന് ഇത് 2094 ആയി മാറുന്നു അതേ അനുപാതത്തിൽ അവയുടെ എല്ലാ വേരിയബിൾ ചെലവും കുറയും അതിനാൽ അവർക്ക് ലഭ്യമായ ജോലിയിൽ 0 62 എന്ന അനുപാതത്തിൽ 63 ൽ നിന്ന് 40 ആയി കുറച്ചതായി നിങ്ങൾക്ക് ഇവിടെ കാണാം അതിനാൽ അവയുടെ വേരിയബിൾ ചെലവും അതേ അനുപാതത്തിൽ കുറയും സംഭാവന 128 കുറയും നിങ്ങൾക്ക് ഒന്നുകിൽ PV അനുപാതം വഴിയോ നേരിട്ടുള്ള തൊഴിൽ അനുപാതത്തിലേക്കുള്ള സംഭാവന വഴിയോ ഇത് ചെയ്യാം അതിനാൽ സംഭവിക്കുന്നത് എന്തെന്നാൽ ഡയറക്ട് ലേബർ 24 ആയി ഷിഫ്റ്റ് ചെയ്തു എന്നാൽ വർദ്ധിച്ചുവരുന്ന സംഭാവന മൈനസ് 76 ആണ് B ക്ക് 75 82 നഷ്ടമുണ്ട് എന്നാൽ A യ്ക്ക് 253 89 നേട്ടമുണ്ട് അതിനാൽ കമ്പനി മൊത്തത്തിൽ 177 87 നേട്ടമുണ്ടാക്കി അതിനാൽ 816 ആയിരുന്ന യഥാർത്ഥ പ്രവർത്തന ലാഭം 177 കൂടി വർദ്ധിക്കും പുതുക്കിയ പ്രവർത്തന ലാഭം ഇപ്പോൾ 994 303 ആണ് നിങ്ങൾക്ക് അത് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ പരിഷ്കരിച്ച പ്രവർത്തന ലാഭം എത്രയായിരിക്കുമെന്ന് കുറച്ച് കാര്യങ്ങൾ കണക്കാക്കാൻ അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു ഓർക്കുക നിശ്ചിത ചെലവുകളിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല മൊത്തം ഫിക്സഡ് കോസ്റ്റ് തുല്യമായിരിക്കും പരിഷ്കരിച്ച പ്രവർത്തന ലാഭം 993 ആയിരിക്കും നമുക്ക് ഇത് രണ്ട് തരത്തിൽ ചെയ്യാം നിങ്ങൾക്ക് പ്രവർത്തന ലാഭം ലഭിക്കുന്ന പുതുക്കിയ സംഭാവന നേരിട്ട് കണക്കാക്കുന്ന കുറുക്കുവഴിയിൽ ഞങ്ങൾ ഇത് ചെയ്തു അല്ലെങ്കിൽ ഈ പൂർണ്ണ കണക്കുകൂട്ടൽ നടത്തുക തുടർന്ന് നിങ്ങൾക്ക് 994 ആയി പരിഷ്കരിച്ച പ്രവർത്തന ലാഭം ലഭിക്കും നിങ്ങൾക്ക് അത് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതിനാൽ ഈ കേസിൽ ഒരു ചെറിയ വിശദമായ കേസ് പോലെയുള്ള ഈ സാഹചര്യത്തിൽ A B എന്നിവയുമായി ബന്ധപ്പെട്ട ഭാഗം മൊത്തത്തിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ബ്രേക്ക് ഡൌൺ ചെയ്യാമെന്ന് കണ്ടു വിസിക്കും എഫ്സിക്കും വെവ്വേറെയായി അത് എങ്ങനെ പ്രയോഗിച്ചുവെന്നും ശേഷം എങ്ങനെ തീരുമാനമെടുക്കുമെന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒന്ന് വിൽപ്പനയുടെ ആകെ മാറ്റം ഉൾക്കൊണ്ടതും മറ്റൊന്ന് ലേബർ പരിമിതപ്പെടുത്തുന്ന ഘടകം ആയുള്ളതും ഇത് നിങ്ങൾക്ക് നല്ലൊരു പഠനമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതോടെ ഞങ്ങൾ ഇവിടെ നിർത്താം നമസ്തേ നന്ദി